തിരികെ വരാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തെവേനിന്റെ സിദ്ധാന്തം യഥാർത്ഥത്തിൽ ഒരു ലീനിയർ 2 ടെർമിനൽ സർക്യൂട്ട് മാറ്റിസ്ഥാപിക്കാൻ തുല്യമായ സർക്യൂട്ട് ഉപയോഗിച്ച് ഒരു വോൾട്ടേജ് സ്രോതസ്സ് VThevenin അടങ്ങുന്ന റെസിസ്റ്റർ RThevenin ഉപയോഗിച്ച് ശ്രേണിയിൽ ഉൾപ്പെടുത്താം ഇതാണ് VThevenin ഇത് RThevenin അതിനാൽ VThevenin എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ടെർമിനലിലെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജാണ് അത് എങ്ങനെ നേടാമെന്ന് അറിയണം കൂടാതെ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങൾ ഓഫുചെയ്യുമ്പോൾ ടെർമിനലിൽ ഇൻപുട്ട് അല്ലെങ്കിൽ തുല്യമായ പ്രതിരോധമാണ് RThevenin അതിനാൽ ടെർമിനൽ 1 2 എന്നിവയിൽ ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എങ്ങനെ നേടാമെന്ന് കാണും ടെർമിനലിലും ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങൾ ഓഫുചെയ്യുമ്പോൾ ടെർമിനലുകളിൽ ഇൻപുട്ട് അല്ലെങ്കിൽ തുല്യമായ പ്രതിരോധത്തിൽ അതിനാൽ എല്ലാ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് ഉറവിടവും നിങ്ങൾ ഇത് ചെറുതാക്കണം നിങ്ങൾക്ക് നിലവിലെ ഒരു ഉറവിടമുണ്ടെങ്കിൽ അത് ഓഫാക്കി തുറന്ന് RThevenin എന്താണെന്ന് കണ്ടെത്തണം നിങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ VThevenin RThevenin എന്നിവ കണ്ടെത്തുക എന്നതാണ് അതാണ് നിങ്ങൾ നേടേണ്ടത് ഇപ്പോൾ ഇതിലേക്ക് പോകുക അതിനർത്ഥം ഈ ചിത്രത്തിൽ 4 18 തുല്യമാണ് V TH എന്നത് ഇതിന് തുല്യമായ ചിത്രത്തിലെ 2 സർക്യൂട്ടുകൾ ആണെന്ന് കരുതുക അതായത് ഇത് ലീനിയർ 2 ടെർമിനൽ സർക്യൂട്ട് ആണ് അതിനർത്ഥം ഈ സർക്യൂട്ട് നിങ്ങൾ ഇത് ചിത്രം 4 എന്ന് എടുത്താൽ ഇത് ചിത്രം 14 18 a ആണ് ഇത് മുകളിലുള്ള 18 a കടന്നുപോകുന്നു ഇപ്പോൾ VThevenin RThevenin എന്നിവ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ സർക്യൂട്ട് ലീനിയർ 2 ടെർമിനൽ സർക്യൂട്ട് ആണ് ഇതാണ് V oc അതാണ് VThevenin ഇത് RThevenin അതാണ് R ഇൻപുട്ട് പ്രതിരോധം അതിനാൽ ലീനിയർ 2 ടെർമിനൽ സർക്യൂട്ട് എല്ലാ ഉറവിടങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കാൻ നിങ്ങൾ ഇത് പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് VThevenin അല്ലെങ്കിൽ Voc ലഭിക്കുന്നിടത്ത് നിന്ന് ഇവിടെ എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളുമുള്ള ലീനിയർ സർക്യൂട്ട് 0 ന് തുല്യമാണ് അതിനർത്ഥം ഓഫാക്കേണ്ടതുണ്ട് അതിനുശേഷം തുല്യമായ പ്രതിരോധം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു RThevenin അല്ലെങ്കിൽ R ഇൻപുട്ട് ഇത് ടെർമിനൽ 1 2 എന്നിവയിൽ നിന്ന് നോക്കുന്നു ഇവിടെയും നിങ്ങൾ Voc VThevenin എന്ന് വിളിക്കുന്നതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അത് V 1 2 1 നെ നെഗറ്റീവ് മുതൽ പോസിറ്റീവ് ആക്കും അതിനാൽ V 1 2 ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ 2 കേസുകൾ പരിശോധിക്കാം ടെർമിനൽ 1 ഉം 2 ഉം ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അത് ലോഡ് നീക്കംചെയ്യുന്നതിലൂടെയാണ് അതിനർത്ഥം നിങ്ങൾ ഈ ടെർമിനൽ നിർമ്മിക്കുകയാണെങ്കിൽ ഞാൻ ഈ കാര്യത്തിലേക്ക് പോകുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഇത് തുറക്കുകയാണെങ്കിൽ ഇത് വിച്ഛേദിക്കപ്പെട്ടുവെന്ന് കരുതുക ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ലോഡ് വിച്ഛേദിക്കപ്പെടും അതായത് i 0 നിങ്ങൾ ഇത് തുറക്കുകയാണെങ്കിൽ ടെർമിനൽ 1 2 എന്നിവയിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോഡ് വിച്ഛേദിക്കപ്പെട്ടു അതിനാൽ വീണ്ടും തിരികെ പോകും ടെർമിനൽ 1 2 ൽ ഉടനീളമുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് VTheveni എന്ന വോൾട്ടേജ് ഉറവിടത്തിന് തുല്യമായിരിക്കണം അതിനാൽ ടെർമിനൽ 1 2 ൽ ഉടനീളമുള്ള ഈ വോൾട്ടേജ് ചിത്രം 4 18 b യിലെ VTheveni എന്ന വോൾട്ടേജ് ഉറവിടത്തിന് തുല്യമായിരിക്കണം അതായത് 18 b 2 സർക്യൂട്ടുകൾ തുല്യമായതിനാൽ ചിത്രം 19 a ൽ കാണിച്ചിരിക്കുന്നതുപോലെ ടെർമിനലിലുടനീളം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജാണ് VTheveni അതാണ് VTheveni V oc അതുകൊണ്ടു ഇവിടെ ഇതാ അതായത് നിങ്ങൾ ലോഡ് വിച്ഛേദിച്ചുവെങ്കിൽ ടെർമിനൽ 1 2 എന്നിവയിൽ നിന്ന് നിങ്ങൾ ലോഡ് വിച്ഛേദിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ RThevenin കണ്ടെത്തുമ്പോൾ ലീനിയർ സർക്യൂട്ട് ഇൻഡിപെൻഡന്റാണ് തുടർന്ന് ഈ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളെല്ലാം ഓഫ് ചെയ്യണം ഈ സാഹചര്യത്തിൽ വീണ്ടും ടെർമിനലുകൾ 1 ഉം 2 ഉം ലോഡ് വിച്ഛേദിച്ച് എല്ലാ ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകളും ഓഫ് ചെയ്തുകൊണ്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നു അതിനാൽ ലോഡ് എപ്പോഴാണ് വിച്ഛേദിക്കപ്പെട്ടതെന്ന് കണ്ടെത്തുകയും നിങ്ങൾ എല്ലാ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളും ഓഫാക്കുകയും ചെയ്യും അതിനാൽ ചിത്രം 4 18 a ലെ ടെർമിനൽ 1 2 എന്നിവയിലെ ഡെഡ് സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തുല്യമായ പ്രതിരോധം ചിത്രം 4 18 bയിലെ RThevenin ന് തുല്യമായിരിക്കണം 2 സർക്യൂട്ടുകൾ തുല്യമായതിനാൽ ടെർമിനൽ 1 2 എന്നിവയിലെ ഇൻപുട്ട് റെസിസ്റ്റൻസാണ് RThevenin അതിനർത്ഥം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങൾ ഓഫുചെയ്യുമ്പോൾ ഈ RThevenin R ആയിരിക്കും അതിനർത്ഥം ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം നിങ്ങൾ എല്ലാം അറിയും അതിനാൽ ഇതിനർത്ഥം സർക്യൂട്ട് 19 b യിലെ എല്ലാ ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകളും തിരിയുന്നതിലൂടെ നിങ്ങൾ സർക്യൂട്ട് വീണ്ടും വരയ്ക്കുകയും ടെർമിനൽ 1 2 എന്നിവയിൽ നിന്ന് നോക്കുകയും ചെയ്താൽ പ്രതിരോധം R ഇൻപുട്ട് അല്ലെങ്കിൽ RThevenin എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തും R ഇൻപുട്ട് RThevenin അതിനാൽ സംഖ്യയിലേക്ക് നേരിട്ട് പോകുന്നതിനേക്കാൾ ഞാൻ നൽകിയ ഭാഷയിലാണ് ഇത് നൽകിയിരിക്കുന്നത് തെവെനിൻ സിദ്ധാന്തങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സർക്യൂട്ട് ലളിതമാക്കാൻ സഹായിക്കുന്നു ഇത് സർക്യൂട്ട് വിശകലനത്തിൽ വളരെ പ്രധാനമാണ് ഒരു വലിയ സർക്യൂട്ടിന് പകരം ഒരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സ്രോതസ്സും DC സർക്യൂട്ടിനായി സിംഗിൾ റെസിസ്റ്റർ മാർഗങ്ങൾക്കായി ഒരൊറ്റ റെസിസ്റ്ററും ഉപയോഗിക്കാം കൂടാതെ ഈ മാറ്റിസ്ഥാപിക്കൽ രീതി സർക്യൂട്ട് രൂപകൽപ്പനയിലെ ഒരു മികച്ച ഉപകരണമാണ് അതിനാൽ തെവെനിൻ പ്രതിരോധം RThevenin കണ്ടെത്തുന്നതിന് 2 കേസുകൾ പരിഗണിക്കേണ്ടതുണ്ട് കേസ് 1 നെറ്റ്വർക്കിന് ഡിപെൻഡന്റ് ഉറവിടങ്ങളില്ലെങ്കിൽ എല്ലാ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളും ഓഫ് ചെയ്യുക ടെർമിനലുകൾ 1 നും 2 നും ഇടയിലുള്ള നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസായ RThevenin നിർണ്ണയിക്കുക ചിത്രം 19 b യിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആ സർക്യൂട്ട് ഉണ്ടെന്ന് കാണിക്കുന്നു ഇപ്പോൾ നെറ്റ്വർക്കിന് ഡിപെൻഡന്റ് ഉറവിടങ്ങളുണ്ടെങ്കിൽ എല്ലാ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളും ഓഫ് ചെയ്യുക നിങ്ങൾ ഒരു ഡിപെൻഡന്റ് ഉറവിടമാണെങ്കിൽ നിങ്ങൾക്ക് ഡിപെൻഡന്റ് ഉറവിടങ്ങളുണ്ടോയെന്ന് നോക്കുക ചെയ്ത എല്ലാ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളും നിങ്ങൾ ഓഫാക്കും ഇപ്പോൾ ആശ്രിത സ്രോതസ്സുകൾ ഉള്ളപ്പോൾ RThevenin ലഭിക്കുന്നതിനുള്ള സാങ്കേതികത അല്പം വ്യത്യസ്തമാണ് ഇത് ഞാൻ പറയുന്ന വാക്കുകളിലാണ് പക്ഷേ നിങ്ങൾ അക്കങ്ങൾ എടുക്കുമ്പോൾ അത് പൂർണ്ണമായും സുതാര്യമായിരിക്കും എന്നാൽ നിങ്ങൾ എല്ലാ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളും ഓഫ് ചെയ്യണം പക്ഷേ ഡിപെൻഡന്റ് ഉറവിടങ്ങളല്ല ഇപ്പോൾ നിങ്ങൾ ടെർമിനലുകൾ 1 2 എന്നിവയിൽ ഒരു വോൾട്ടേജ് ഉറവിടം V0 പ്രയോഗിക്കേണ്ടതുണ്ട് ഈ വോൾട്ടേജ് V0 നിങ്ങൾ ഒരു ടെർമിനൽ 1 2 എന്നിവ പ്രയോഗിക്കുന്നു V0 ന്റെ ഈ മൂല്യം നിങ്ങൾക്ക് ഏത് മൂല്യവും നൽകാം V0 0 1 വോൾട്ട് അല്ലെങ്കിൽ 1 വോൾട്ട് അല്ലെങ്കിൽ 2 വോൾട്ട് ഏതെങ്കിലും വോൾട്ട് നിങ്ങൾ ഇട്ട ഏത് മൂല്യവും തത്ഫലമായുണ്ടാകുന്ന കറന്റ് നേടുക തുടർന്ന് നിങ്ങൾ i0 നേടുന്നു ഇത് ഇട്ടതിനുശേഷം പിന്നീട് സർക്യൂട്ട് മറ്റൊരു കാര്യം കാണും ഇത് ഇട്ടതിനുശേഷം i0 എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തും RThevenin V0 i0 ആയിരിക്കും നിങ്ങൾ വോൾട്ടേജ് ഇടുകയാണെങ്കിൽ നിങ്ങൾ അതിനെ വോൾട്ടേജ് ഉറവിടം V0 എന്ന് വിളിക്കുന്നു കറന്റ് ഉറവിടമായി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് കറന്റ് ഉറവിടം i0 ടെർമിനൽ 1 2 എന്നിവയിൽ വോൾട്ടേജോ കറന്റോ ചേർക്കാം 20 b യിൽ കാണിച്ചിരിക്കുന്നതുപോലെ പ്രശ്നമില്ല ഞാൻ അതിലേക്ക് വരും തുടർന്ന് വോൾട്ടേജ് V0 RThevenin V0 R0 എന്നിവ കണ്ടെത്തുക i0 1 ആമ്പിയർ 2 ആമ്പിയറിന്റെ ഏത് മൂല്യവും പ്രശ്നമല്ല ഇത് നിങ്ങളുടേതാണ് പക്ഷേ ആത്യന്തികമായി RThevenin ലീനിയറിറ്റി പ്രോപ്പർട്ടിയിൽ നിന്ന് സമാനമായി തുടരും രണ്ട് സമീപനങ്ങളും സമാന ഫലങ്ങൾ നൽകുന്നു നിങ്ങൾക്ക് V0 i0 എന്നിവയുടെ ഏതെങ്കിലും മൂല്യം അനുമാനിക്കാം ഉദാഹരണത്തിന് V0 10 വോൾട്ട് അല്ലെങ്കിൽ i0 1 ആമ്പിയർ അല്ലെങ്കിൽ V0 അല്ലെങ്കിൽ i0 ന്റെ വ്യക്തമാക്കാത്ത മൂല്യങ്ങൾ ഉപയോഗിക്കാം അതിനർത്ഥം നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഉള്ളപ്പോഴെല്ലാം ഈ സർക്യൂട്ട് നിങ്ങൾക്ക് എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും 0 ന് തുല്യമായി സജ്ജമാക്കിയിട്ടുണ്ടെന്ന് കരുതുക ഓഫ് ചെയ്തിരിക്കുന്നു എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ആശ്രിത ഉറവിടമുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് 1 2 എന്നിവയിലുടനീളം ഒരു വോൾട്ടേജ് ഉറവിടം V0 ബന്ധിപ്പിച്ച് i0 കണ്ടെത്താനാകും ഈ കറന്റും ഈ V0 ഉം നിങ്ങൾക്ക് 1 വോൾട്ട് 2 വോൾട്ട് ആവശ്യമുള്ളതെന്തും അനുമാനിക്കാം അതിൽ കാര്യമില്ല ആത്യന്തികമായി RThevenin V0 i0 ആയിരിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് 1 2 എന്നിവയിലുടനീളം കറന്റ് ഉറവിടം സ്ഥാപിച്ച് സർക്യൂട്ട് പരിഹരിക്കാൻ കഴിയും V എന്താണെന്ന് കണ്ടെത്തുക തുടർന്ന് RThevenin എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അത് ഇവിടെ V ആയിരിക്കണം ഇത് V0 ആണ് ഇവിടെ ഈ i0 നിർമ്മിച്ചതിനുശേഷം നിങ്ങൾ കണ്ടെത്തും ഈ പ്രത്യയം V0 ആയി എടുക്കണമെന്ന് കരുതുക അതിനാൽ നിങ്ങൾ RThevenin V0 i0 കണ്ടെത്തുന്നു ഈ i0 മൂല്യം 0 1 ആമ്പിയർ 0 51 ആമ്പിയർ എന്നിവ ആകാം ഇത് നിങ്ങളുടേതാണ് നിങ്ങൾ RThevenin എടുക്കുന്ന ഏത് മൂല്യവും നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ആ ഡിപെൻഡന്റ് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ഉറവിടങ്ങൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകൾ മാത്രമേ ഓഫ് ചെയ്യപ്പെടുകയുള്ളൂ എന്നാൽ ഡിപെൻഡന്റ് ഉറവിടങ്ങൾക്കായി നിങ്ങൾ ഈ സാങ്കേതികവിദ്യ ചേർക്കേണ്ടതുണ്ട് സർക്യൂട്ട് ഉള്ളടക്കങ്ങൾ ഡിപെൻഡന്റ് വോൾട്ടേജോ ഡിപെൻഡന്റ് കറന്റ് ഉറവിടങ്ങളോ ആണെങ്കിൽ അതിനാൽ അത് ലഭിക്കാൻ RThevenin ഉപയോഗിക്കുന്നു അതിനാൽ രസകരമായ ഒരു കാര്യം അവിടെ അത് സംഭവിക്കാം സർക്യൂട്ടിന് ഡിപെൻഡന്റ് ഉറവിടങ്ങളുണ്ടെങ്കിൽ ഇത് സംഭവിക്കാം അതിനാൽ RThevenin ന് ഒരു നെഗറ്റീവ് മൂല്യം ഉണ്ടാകാം നെഗറ്റീവ് മൂല്യം അർത്ഥമാക്കുന്നത് ഇത് എഴുതിയത് V i R സൂചിപ്പിക്കുന്നത് സർക്യൂട്ട് പോർ വിതരണം ചെയ്യുന്നുവെന്നും ഡിപെൻഡന്റ് ഉറവിടങ്ങളുള്ള ഒരു സർക്യൂട്ടിൽ ഇത് സാധ്യമാണെന്നും സൂചിപ്പിക്കുന്നു അത്തരം സാഹചര്യത്തിൽ തെവെനിൻ സിദ്ധാന്തം സംഭവിക്കാം സർക്യൂട്ടിന് ഡിപെൻഡന്റ് ഉറവിടങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ RThevenin കണ്ടെത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ RThevenin ഉം നെഗറ്റീവ് ആകാം അതിനർത്ഥം സർക്യൂട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ വിളിക്കുന്നത് പോർ വിതരണം ചെയ്യുന്നുവെന്നും ഡിപെൻഡന്റ് സ്രോതസ്സുകളുള്ള ഒരു സർക്യൂട്ടിൽ ഇത് സാധ്യമാണെന്നും അതിനാൽ ഡിപെൻഡന്റ് ഉറവിടങ്ങളെ ആശ്രയിച്ച് RThevenin നെഗറ്റീവ് ആകാം ഒരു ഉദാഹരണം പിന്നീട് പറയാം അവിടെ RThevenin നെഗറ്റീവ് ആണ് അത് സംഭവിക്കാം ഉദാഹരണത്തിന് ടെർമിനലുകൾ 1 2 ന്റെ ഇടതുവശത്ത് ചിത്രം 21 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ തെവെനിൻ തുല്യമായ സർക്യൂട്ട് കണ്ടെത്തുക തുടർന്ന് RL 8 Ω പ്രതിരോധത്തിലൂടെ വൈദ്യുതധാര കണ്ടെത്തുക അതിനാൽ ഇതാണ് സർക്യൂട്ട് ഇത് ടെർമിനൽ 1 2 എന്നിവയാണ് തെവെനിൻ സിദ്ധാന്തം ഉപയോഗിച്ച് ഇതിലൂടെ നിങ്ങൾ വൈദ്യുതധാര കണ്ടെത്തണം അതിനർത്ഥം തെവെനിന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് 8 Ω പ്രതിരോധത്തിലൂടെ കറന്റ് i L നിങ്ങൾ കണ്ടെത്തണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് തുറക്കണം അതിനുശേഷം നിങ്ങൾ തെവെനിൻ വോൾട്ടേജ് VThevenin Voc ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടെത്തണം കാരണം നിങ്ങൾ അത് തുറന്നാലുടൻ അത് തുറക്കുകയും R ഇൻപുട്ട് കണ്ടെത്തുകയും വേണം അതാണ് RThevenin അത് എങ്ങനെ ചെയ്യും നിങ്ങൾ 2 ഘട്ടത്തിന് തുല്യമായ ഈ സ്ഥലത്തേക്ക് പോയാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യണം ഒന്ന് നിങ്ങൾ VThevenin നേടേണ്ടതുണ്ട് മറ്റൊന്ന് RThevenin ആണ് പക്ഷേ ആദ്യം നിങ്ങൾ ടെർമിനൽ 1 2 എന്നിവയിൽ നിന്ന് ഈ RL തുറക്കണം നിങ്ങൾ ഇത് തുറക്കുകയാണെങ്കിൽ നിങ്ങൾ തുറന്നതിനും RThevenin ലഭിക്കുന്നതിനും എല്ലാ ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകളും ഓഫ് ചെയ്യപ്പെടും അതിനർത്ഥം ഇത് ലഭിക്കുന്നതിനുള്ള ഈ വോൾട്ടേജ് ഉറവിടം തുറന്നിരിക്കുന്നു നിങ്ങൾക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് RThevenin ലഭിക്കണം അതിനാൽ ഇത് തുറന്നിരിക്കണം കാരണം കറന്റ് ഉറവിടം തുറന്നിരിക്കണം മാത്രമല്ല ഈ വോൾട്ടേജ് ഉറവിടം ചെറുതാക്കുകയും വേണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് തുല്യമായ സർക്യൂട്ട് ലഭിക്കൂ കാരണം എല്ലാ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളും ഓഫ് ചെയ്യണം ഇത് നീക്കംചെയ്യേണ്ടതുണ്ട് അതാണ് ഇവിടെ വരച്ചത് അതിനാൽ കറന്റ് ഉറവിടങ്ങൾ തുറക്കുകയും ഈ വോൾട്ടേജ് സ്രോതസ്സുകൾ ചെറുതാക്കുകയും ടെർമിനൽ 1 2 എന്നിവയിൽ നിന്ന് നോക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് RThevenin ലഭിക്കും മറ്റൊരു സാഹചര്യത്തിൽ നിങ്ങൾ അത് കണ്ടെത്തണം ഈ VThevenin നിങ്ങൾ നേടേണ്ടതുണ്ട് ഈ കാര്യത്തിലുടനീളം ഈ 8 Ω പ്രതിരോധം ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ തുറന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് തുറന്നയുടനെ VThevenin എന്നതിനർത്ഥം ഓപ്പൺ സർക്യൂട്ട് ആയ Voc എന്നാണ് ഇത് യഥാർത്ഥത്തിൽ Voc ആണ് ബാക്കി സർക്യൂട്ട് കേടുകൂടാതെയിരിക്കും ഈ 2 ആമ്പിയർ ഇൻഡിപെൻഡന്റ് കറന്റ് ഉറവിടവും ഈ കാര്യവും ഉണ്ടായിരിക്കുo അതിനാൽ നിങ്ങൾക്ക് RThevenin ലഭിക്കും ഇവിടെ നിന്ന് ഈ സർക്യൂട്ട് പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് VThevenin ലഭിക്കും ഇത് തുറന്നിരിക്കുമ്പോൾ 2 5 Ω റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന ഒരു വൈദ്യുതധാരയും ഇതിലൂടെ ഒഴുകുന്നില്ല അപ്പോൾ എന്താണ് RThevenin ഈ 2 Ω 6 Ω ഇവ രണ്ടും സമാന്തരമാണ് അതിനാൽ അവയുടെ തുല്യമാണ് അതായത് മൊത്തം RThevenin 6 26 2 ആയിരിക്കും ഈ 12 സീരീസ് 2 5 ആണ് അത് യഥാർത്ഥത്തിൽ 128 ആയതിനാൽ 3 2 15 ആണ് അത് 1 5 2 5 4Ω അതായത് ഈ RThevenin 4Ω അതിനാൽ RThevenin ലഭിക്കുന്നതിന് ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകൾ ഓഫ് ചെയ്യണം അതിനാൽ ഇത് RThevenin ആണ് ഇപ്പോൾ VThevenin നായി ഇവിടെ വരുമ്പോൾ ലൂപ്പ് കറന്റ് എടുക്കുകയും ഈ സർക്യൂട്ട് പരിഹരിക്കേണ്ടതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുകയും VThevenin എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുകയും വേണം നിരവധി സർക്യൂട്ടുകൾ പരിഹരിച്ചു അതിനാൽ വോൾട്ടേജ് എന്താണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഈ കാര്യത്തിനായി മെഷ് സമവാക്യം എഴുതിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഈ ലൂപ്പിൽ KVL പ്രയോഗിക്കുകയാണെങ്കിൽ ഈ കറന്റ് 2 ആമ്പിയർ മുകളിലേക്കുള്ള ദിശ കാണിക്കുന്നു ഇതുപോലെ i2 എടുത്തിട്ടുണ്ട്അടിസ്ഥാനപരമായി i2 താഴേക്ക് പോകുന്നു അതിനാൽ i2 യഥാർത്ഥത്തിൽ 2 ആമ്പിയർ അടുത്തതായി നിങ്ങൾ i1 കണ്ടെത്തണം ഈ ലൂപ്പിൽ ഞാൻ KVL പ്രയോഗിക്കണം ഈ മെഷ് ഇത് 2 ഉം i 1 ഉം ആയിരിക്കും ഇത് 2 i 1 പോലെ ഒഴുകുന്നു ഇത് 2 i1 ആയിരിക്കും അത് i1 താഴേക്ക് i2 മുകളിലേക്ക് ആയിരിക്കും ഇത് 6 i1 i2 ആയിരിക്കും അത് അഭിമുഖീകരിക്കുന്നു ടെർമിനൽ ആദ്യം 16 0 ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന് കരുതുന്നു ഞാൻ അതിനാൽ ഈ i2 ൽ നിന്ന് അറിയാം നിങ്ങൾ ഇവിടെ i2 2 ഇടുകയാണെങ്കിൽ അത് 6 i1 2 ആയിരിക്കും അതിൽ നിന്ന് i1 എന്താണെന്ന് നിങ്ങൾക്ക് പരിഹരിക്കാനാകും അതിനാൽ i1 പരിഹരിച്ചു അതിനാൽ i1 ഒരേ സമവാക്യത്തിൽ എഴുതുക i1 0 5 ആമ്പിയർ ലഭിച്ചു അങ്ങനെ അത് വരേം കിട്ടി അടുത്തതായി നിങ്ങൾ കണ്ടെത്തണം അതിനാൽ i1 i1 ലഭിച്ചു 0 5 ആമ്പിയർ ഇപ്പോൾ നിങ്ങൾക്ക് VThevenin എന്താണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കാവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയും ഉദാഹരണത്തിന് അവർ ആ പ്രശ്നത്തിലാണ് ഞാൻ K V L ഇതുപോലെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് കറന്റു ള്ളതാക്കിയാൽ 0 ആണ് ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് ഒന്നും ഇവിടെയില്ല നിങ്ങൾ ഇത് താഴേയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഇത് 6 i1 i2 VThevenin 0 ആയിരിക്കും കാരണം ടെർമിനൽ വേഗത്തിൽ നേരിടുന്നു നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും i2 2 അതാണ് നിങ്ങൾ ഇതിനെ 2 എന്നും i1 0 5 എന്നും വിളിക്കുന്നത് 5 6 എടുക്കുക VThevenin 15 വോൾട്ട് ആയിരിക്കും അതിനാൽ നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഈ ലൂപ്പിലും KVL ഉൾപ്പെടുത്താം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അതേ ഫലം ലഭിക്കും അതുകൊണ്ടാണ് VThevenin ന് 15 വോൾട്ട് ഇവിടെ ലഭിച്ചത് ഇത് 15 വോൾട്ട് ആണ് ഇവിടെ ഇത് 15 വോൾട്ട് ആണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു ഇവിടെയും കറന്റ് i1 0 അതിനാൽ VThevenin RThevenin എന്നിവ ലഭിച്ചതിന് ശേഷം RThevenin ന് 4Ω ലഭിച്ചു അതിനാൽ ഇതാണ് തെവെനിൻ തുല്യമായ സർക്യൂട്ട് അതിനാൽ VThevenin 15 വോൾട്ട് ലഭിച്ചു RThevenin ഇവ രണ്ടും ഉണ്ട് അതിനൊപ്പം ഈ RL 8Ω ശ്രേണിയിലായിരിക്കും അതിനർത്ഥം i L VThevenin RThevenin RL ആയിരിക്കും അതായത് i L RThevenin RL ആ VThevenin 15 വോൾട്ട് RThevenin 4 8 ആണ് അതിനാൽ 1512 അതായത് 1 25 ആമ്പിയർ ഈ രീതിയിൽ നിങ്ങൾക്ക് തെവെനിന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് RL വഴി കറന്റ് ലഭിക്കും ഇപ്പോൾ തെവെനിന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഈ സർക്യൂട്ട് വഴി ieRL നോഡൽ വിശകലനം അല്ലെങ്കിൽ മെഷ് വിശകലനം നേടി അതേ രീതിയിൽ തന്നെ നിങ്ങൾ പരിഹരിക്കുകയും RL വഴി R RL കറന്റ് എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് അതേ ഉത്തരം സമാന ഉത്തരം ലഭിക്കും ഈ RL വേരിയബിൾ ആണെങ്കിൽ ഈ RL വീണ്ടും വീണ്ടും മാറുകയാണെങ്കിൽ RL 8 ആണെന്ന് കരുതുക തെവെനിന്റെ സിദ്ധാന്തം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് RL നിങ്ങൾ എടുത്ത 8Ω ആണെന്ന് കരുതുക ഇപ്പോൾ നിങ്ങൾ RL 10 അല്ലെങ്കിൽ RL 6 മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ഓരോ തവണയും RL മാറ്റുമ്പോൾ അതിനർത്ഥം മുമ്പത്തെ വിശകലനം നോഡൽ വിശകലനം അല്ലെങ്കിൽ മെഷ് വിശകലനം അല്ലെങ്കിൽ സൂപ്പർ സ്ഥാനം അല്ലെങ്കിൽ ചെയ്തതെന്തും ഓരോ തവണയും നിങ്ങൾ മുഴുവൻ സർക്യൂട്ടും പരിഹരിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ RLന്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി കറൻറ് iL എന്താണെന്നറിയാനുള്ള ഞങ്ങളുടെ താൽപ്പര്യം കരുതുക അതിന് തുല്യമായ VThevenin RThevenin ലഭിച്ചു അതിനാൽ RL മാറ്റിക്കൊണ്ട് ലളിതമായ സീരീസ് സർക്യൂട്ട് ഉപയോഗിച്ച് RL വേരിയബിൾ ആണെങ്കിൽ RL വഴി കറൻറ് നേടാൻ കഴിയും വേരിയബിൾ ചിഹ്നം ഇതുപോലെയാണ് അതിനാൽ അതാണ് തെവെനിന്റെ സിദ്ധാന്തത്തിന്റെ ഗുണം ഇത് RThevenin തുല്യമാണ് ഇപ്പോൾ ചോദ്യം ഈ RL മാറുന്നുവെന്ന് കരുതുക നിങ്ങൾ 10Ω RL എടുക്കുന്നുവെന്ന് കരുതുക RL 6Ω എടുക്കാം ഈ RL മാറുന്നുവെന്ന് കരുതുക അതിനാൽ ഇത് ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കുന്നു i L VThevenin RThevenin RL അതിനാൽ VThevenin പരിഹരിച്ചു RThevenin പരിഹരിച്ചത് RL മാത്രം മാറുന്നു ലളിതമായ സർക്യൂട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറന്റ് കണക്കാക്കാം മുഴുവൻ സർക്യൂട്ടും വീണ്ടും വീണ്ടും പരിഹരിക്കേണ്ട ആവശ്യമില്ല തെവെനിന്റെ തുല്യമായ സർക്യൂട്ടിന്റെ പ്രധാന നേട്ടമാണിത് അതായത് നിങ്ങൾ വീണ്ടും വീണ്ടും മാറ്റുന്നത് RL മാത്രമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും ഇപ്പോൾ മറ്റൊരു കാര്യം നോഡൽ വിശകലനം ഉപയോഗിച്ച് ഉദാഹരണം 9 ന്റെ VThevenin നിർണ്ണയിക്കുക ഇത് യഥാർത്ഥത്തിൽ ഉദാഹരണം 9 ആണ് ഈ സർക്യൂട്ടിനെ മാത്രം വിളിക്കുന്ന നോഡൽ വിശകലനം ഉപയോഗിച്ച് VThevenin കണ്ടെത്തണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സർക്യൂട്ട് അതേ ഉദാഹരണമായി തുടരുന്നു 10 സർക്യൂട്ട് സമാനമായി തുടരും നോഡൽ വിശകലനം ഉപയോഗിച്ച് നിങ്ങൾ VThevenin നേടണം എന്നതാണ് കാര്യം അതിനാൽ നമുക്ക് അതിലേക്ക് പോകാം അതിനാൽ കറന്റ് 2 5Ω റെസിസ്റ്ററുകൾ ചിത്രം 23 ലൂടെ ഒഴുകുന്നുവെന്ന് ഈ സാഹചര്യത്തിൽ നിങ്ങൾ അവഗണിക്കുന്നു കാരണം ഇത് തുറന്നിരിക്കുന്നതിനാൽ ഒരു വൈദ്യുതധാരയും ഇതിലൂടെ ഒഴുകുന്നില്ല നിങ്ങൾക്ക് ഇത് അവഗണിക്കാം കൂടാതെ നിങ്ങൾ VThevenin എടുക്കുമ്പോഴെല്ലാം ഇതുപോലെ ഈ VThevenin അരരൌ അർത്ഥമാക്കുന്നത് ആണ് ഇത് VThevenin ആണ് ഇതിലൂടെ വൈദ്യുതപ്രവാഹം ഒഴുകുന്നില്ല നിങ്ങൾക്ക് ഇത് അവഗണിക്കാം നിങ്ങൾക്ക് ഇത് അവഗണിക്കാൻ ഇത് ആവശ്യമില്ല ഉദാഹരണത്തിന് ഇവിടെ ഈ ടെർമിനൽ ഒരു സാധാരണ ടെർമിനലാണ് ഇവിടെ VThevenin എന്തുതന്നെയായാലും VThevenin ഇവിടെ സമാനമാണ് ഇവിടെ വൈദ്യുത ഉപകരണങ്ങളോ ഘടകങ്ങളോ ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ ഇത് VThevenin ആണ് ഇത് VThevenin ആയിരിക്കും നോഡൽ വിശകലനം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ് VThevenin അതായത് ഇത് ഇത് VThevenin ആണ് ഇത് ഗ്രൌണ്ട് ആണ് ആദ്യം നിങ്ങൾ ഇവിടെ K V L പ്രയോഗിക്കുക ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര i എന്ന് പറയുക ഉദാഹരണത്തിന് ഈ ദിശയിൽ നിലവിലുള്ള പ്രവാഹം i ആണെന്ന് പറയുക തുടർന്ന് നോഡൽ വിശകലനത്തിന് മുമ്പത്തെപ്പോലെ തന്നെ ഇത് 2 i ആയിരിക്കും ഇത് ആണ് അതിനാൽ VThevenin ഏറ്റുമുട്ടൽ ടെർമിനൽ 16 16 വോൾട്ട് അതിനാൽ 16 0 ഇവിടെ നിന്ന് നിങ്ങൾക്ക് i 16 VThevenin 2 ഈ ടെർമിനലിലേക്ക് ഈ നോഡിലേക്ക് നീങ്ങുന്ന കറന്റ് i ഇതാണ് ഈ നോഡിൽ നിങ്ങൾ K C L പ്രയോഗിക്കുന്നു ഇതിലൂടെയുള്ള വൈദ്യുതധാര കണ്ടു 16 VThevenin 2 ഇതാണ് കറന്റ് ഇവിടെ ഇത് VThevenin 6 ഈ കറന്റ് പ്രതിരോധം 6 Ω 2 ആമ്പിയർ എന്നിവയിലേക്ക് പോകുന്നു ഇത് യഥാർത്ഥത്തിൽ ഒന്നുമല്ല അതിനാൽ 2 ആമ്പിയർ യഥാർത്ഥത്തിൽ ഇവിടെ പ്രവേശിക്കുന്നു അത് ഇവിടെ പ്രവേശിക്കുന്നു അതിനർത്ഥം ഇത് പ്രവേശിക്കുന്ന ഈ കറന്റ് അതായത് 2 16 VThevenin 2 VThevenin 6 നിങ്ങൾ ഇത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് VThevenin ലഭിക്കും അതിനാൽ ഇതാണ് ചെയ്തത് നോക്കുക 16 VThevenin ന് 2 2 VThevenin ന് 6 ഇത് പരിഹരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതേ ഫലം ലഭിക്കും VThevenin 15 വോൾട്ട് അടുത്തത് ഈ ചിത്രത്തിന്റെ തെവെനിൻ തുല്യമായ സർക്യൂട്ട് നിർണ്ണയിക്കുക എന്നതാണ് ഇവിടെ ഡിപെൻഡന്റ് വോൾട്ടേജ് ഉറവിടമുണ്ട് ഒരു ഇൻഡിപെൻഡന്റ് കറന്റ് ഉറവിടമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒരു ഡിപെൻഡന്റ് വോൾട്ടേജ് ഉറവിടമാണ് ഇത് Vx ആണ് Vx ഇവിടെ 4 Ω പ്രതിരോധത്തിലുടനീളം വോൾട്ടേജ് ഡ്രോപ്പിലുണ്ട് ഇത് ഒരു ടെർമിനൽ 1 2 തെവെനിൻ തുല്യമായ സർക്യൂട്ട് കണ്ടെത്തണം അതാണ് VThevenin RThevenin കൂടാതെ ഒരു ഇൻഡിപെൻഡന്റ് കറന്റ് ഉറവിടം ഉണ്ട് ഇവിടെ നിങ്ങൾ ഇതിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു ഡിപെൻഡന്റ് വോൾട്ടേജ് ഉറവിടമുണ്ട് നിങ്ങൾ RThevenin കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഈ ഇൻഡിപെൻഡന്റ് കറന്റ് ഉറവിടം ഓഫാക്കണം അത് അവിടെ ഉണ്ടാകരുത് പക്ഷേ ഇത് 1 2 എന്നിവയിലുടനീളം ഇടുക ഒന്നുകിൽ നിങ്ങൾ കറന്റ് ഉറവിടം നിങ്ങൾക്ക് ആവശ്യമുള്ള ആമ്പിയർ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഉറവിടം എന്നിവ നൽകാം തുടർന്ന് നിങ്ങൾക്ക് RThevenin ലഭിക്കണം നിങ്ങൾ ഇതിലേക്ക് വരികയാണെങ്കിൽ അത് ഒരു ഡിപെൻഡന്റ് ഉറവിടമാണ് നിങ്ങൾ ഇതിലേക്ക് വന്നാൽ കറന്റ് ഉറവിടം സ്വിച്ച് ഓഫ് ആണ് അത് അവിടെയില്ല 5 ആമ്പിയർ ഉണ്ടാകരുത് അത് ഓഫ് ചെയ്യണം ഇത് തുറന്നിരിക്കുന്നു എന്നാൽ ഇൻപുട്ട് ചെയ്തത് ഒരു വോൾട്ടേജ് ഉറവിടത്തെ V0 1 വോൾട്ട് 1 2 3 4 ബന്ധിപ്പിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അത് പ്രശ്നമല്ല നിങ്ങൾ കുറച്ച് സംഖ്യാ മൂല്യങ്ങൾ ചെയ്യുന്നു കൂടാതെ RThevenin ലഭിക്കുന്നതിന് നിങ്ങൾ ഈ സർക്യൂട്ട് പരിഹരിച്ചു അതിനർത്ഥം ഡിപെൻഡന്റ് ഉറവിടം വരുമ്പോഴെല്ലാം സംഖ്യകൾ അൽപ്പം സങ്കീർണ്ണവും എന്നാൽ എളുപ്പമുള്ളതുമായ മാർഗ്ഗമായി മാറുന്നു നിങ്ങൾക്ക് 3 ലൂപ്പുകൾ ഉണ്ട് 3 മെഷ് എടുത്തു ഇത് ഈ ലൂപ്പ് ഈ രണ്ട് ഇതെല്ലാം നിങ്ങൾ ദയവായി K V L പ്രയോഗിച്ച് പരിഹരിക്കുക ഒരുപക്ഷേ ഞാൻ നിങ്ങൾക്കായി ഇത് പരിഹരിച്ചിട്ടില്ല അവസാന ഉത്തരം ഞാൻ നൽകുo നിങ്ങൾ മെഷ് 1 ന് KVL മെഷ് 2 ന് KVL മെഷ് 3 ന് KVL എന്നിവ എഴുതുകയും അതിനനുസരിച്ച് V0 നിങ്ങൾ 1 വോൾട്ട് എടുക്കുകയും അതിനുശേഷം i0 ന് പരിഹരിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് i0 1 6 ആമ്പിയർ ലഭിക്കും ഇതാണ് ഞാൻ നിങ്ങൾക്ക് വിടുന്നു ദയവായി ഇത് പരിഹരിക്കുക കൂടാതെ Vx മൂല്യം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും നിങ്ങൾക്കുള്ള ഒരു വ്യായാമം നിങ്ങൾ അത് പരിഹരിക്കേണ്ടതുണ്ട് സമയം ലാഭിക്കാൻ ചില കേസുകൾ ഞാൻ ഇതുപോലെയാക്കി AC സർക്യൂട്ട് സിംഗിൾ ഫേസ് ത്രീ ഫേസ് എല്ലാം നൽകണം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിഹാരം നൽകും നിങ്ങൾ ഇത് സ്വന്തമായി ചെയ്യുക അതിനാൽ ഇവിടെയും നിങ്ങൾ K V L സമവാക്യം പ്രയോഗിച്ച് i0 നായി പരിഹരിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കാര്യം മാത്രമേയുള്ളൂ i 3 ഇതുപോലെ എടുക്കുകയും i0 മുകളിലേക്ക് പോകുകയും ചെയ്യുന്നുഅത് താഴേക്ക് പോകുന്നു അതായത്i0 i3 ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് 6 ആമ്പിയറിൽ i0 1 ഉം RThevenin V0 i0 V0 ഉം ലഭിക്കും 1 വോൾട്ടും i0 6 ഉം എടുത്തിട്ടുണ്ട് ഇത് 6 ആയിരിക്കും നിങ്ങൾ ഏത് മൂല്യവും എടുക്കുക ഇത് ഒരു ലീനിയർ സർക്യൂട്ട് V0 1 വോൾട്ട് 2 വോൾട്ട് ആണ് അത് പ്രശ്നമല്ല അതിനാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും തെവെനിൻ നേടുന്നതിന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ Voc നായി നിങ്ങൾ പരിഹരിക്കും നിങ്ങളുടെ ഉത്തരം 20 വോൾട്ട് ആകുമ്പോൾ ഇവിടെയും പരിഹരിക്കുക നിങ്ങൾ ആ Voc ലഭിക്കുമ്പോൾ ആ VThevenin വോൾട്ടേജ് ദയവായി ഈ സർക്യൂട്ട് പരിഹരിക്കുക ഇവിടെ ഈ കറന്റ് ഇതുപോലെ എടുക്കുന്നു ഇതും മുകളിലാണ് അതിനാൽ i1 5 ആമ്പിയർ നോഡൽ വിശകലനം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാം ഇത് പരിഹരിച്ച ശേഷം നിങ്ങൾ VThevenin കണ്ടെത്തുക VThevenin എന്നതിനർത്ഥം ഇത് ഇത് ഇതാണ് പതിവുപോലെ ഇതിനുശേഷം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് ഈ 2 Ω പ്രതിരോധത്തിലൂടെ ഒരു വൈദ്യുതധാരയും ഒഴുകുന്നില്ല അതിനർത്ഥം നിങ്ങൾ വിളിക്കുന്നവ പ്രയോഗിച്ചാൽ VThevenin എങ്ങനെ കണ്ടെത്താം അതിനർത്ഥം ഈ ടെർമിനൽ സമാനമാണ് ഇതും ഇതും സമാനമാണ് നിങ്ങൾ K V L ഇതുപോലെ പ്രയോഗിച്ചാൽ VThevenin ആയിരിക്കും അത് കറന്റ് i2 ആയിരിക്കും അത് 6 i2 VThevenin 0 ആയിരിക്കും അതായത് VThevenin 6 i2 അതിനാൽ പരിഹാരം നൽകിയിരിക്കുന്നു ദയവായി ഇത് ഇവിടെ പരിഹരിക്കുക Voc 20 വോൾട്ട് അതായത് VThevenin Voc എന്നാൽ VThevenin 20 വോൾട്ട് തെവെനിൻ തുല്യത ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഇത് നിങ്ങൾ പരിഹരിക്കുക ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നു ഇത് യഥാർത്ഥത്തിൽ 20 വോൾട്ടും 6Ω ഉം ആയ തെവെനിൻ തുല്യമായ സർക്യൂട്ടാണ് ഇത് ടെർമിനൽ 1 ആണ് മറ്റൊരു കാര്യം നിങ്ങൾക്കത് കറന്റ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ ടെർമിനൽ നോക്കുക അതിനാൽ ഇത് 206 ആമ്പിയർ ആയിരിക്കും നിങ്ങൾക്ക് ഇത് കറന്റ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ അത് പിന്നീട് കാണാം ഇതും 6 Ω പ്രതിരോധവും ആയിരിക്കും ഇത് 103 ആമ്പിയർ ആയിരിക്കും അതിനാൽ ഈ തെവെനിൻ കറന്റ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ 6 Ω ഇതിന് സമാന്തരമായിരിക്കും